ഡാറ്റാ സയൻസിനായുള്ള ലീനിയർ ആൾജിബ്രയിലാണ് ഈ പ്രഭാഷണം ലീനിയർ ആൾജിബ്ര ഡാറ്റാ സയൻസിന്റെ വളരെ അടിസ്ഥാന ഭാഗമാണ് സാധാരണയായി ഒരു സാധാരണ സെമസ്റ്റർ ലീനിയർ ആൾജിബ്ര കോഴ് സ് ഏകദേശം 36 മണിക്കൂർ പ്രവർത്തിക്കും ഡാറ്റാ സയൻസിൽ ലീനിയർ ആൾജിബ്രയുടെ ഉപയോഗം കുറച്ച് മണിക്കൂറിനുള്ളിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നതാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനാൽ ലീനിയർ ആൾജിബ്രയുടെ വിഷയം അതിന്റെ എല്ലാ വിശദാംശങ്ങളിലും ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഇതിനർത്ഥം എന്നിരുന്നാലും ലീനിയർ ആൾജിബ്രയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത് ഡാറ്റാ സയൻസിന്റെ മൂപ്പനിലും പ്രത്യേകിച്ചും ഈ കോഴ് സിൽ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന മെറ്റീരിയലിനും ഇത് ഉപയോഗപ്രദമാണ് അതിനാൽ ആ അർത്ഥത്തിൽ പങ്കെടുക്കുന്നവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ലീനിയർ ആൾജിബ്രയിൽ നിന്നുള്ള ചില സുപ്രധാന ആശയങ്ങൾ ഞങ്ങൾ ക്രിസ്റ്റലൈസ് ചെയ്തു അതിനാൽ തുടക്കത്തിൽ തന്നെ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇനിപ്പറയുന്നവയാണ് ലീനിയർ ആൾജിബ്രയെ വളരെ സൈദ്ധാന്തികമായി വളരെ ദ്യോഗികമായി പരിഗണിക്കാം എന്നിരുന്നാലും ഡാറ്റാ സയൻസിന് പ്രസക്തമായ ലീനിയർ ആൾജിബ്രയിലെ ഹ്രസ്വ മൊഡ്യൂളിൽ വളരെ formal പചാരികമായിരിക്കാതെ ആശയങ്ങൾ കഴിയുന്നത്ര ലളിതമായ രീതിയിൽ വിശദീകരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു എന്നതാണ് ഞങ്ങൾ ചെയ്തത് എന്നിരുന്നാലും ലീനിയർ ആൾജിബ്രയെ ലളിതമായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു കൈയും ഞങ്ങൾ ചെയ്യുന്നില്ല അതിനാൽ ഈ മെറ്റീരിയലിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങൾ ഓർമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണിത് അതിനാൽ ലീനിയർ ആൾജിബ്രയ്ക്ക് എന്ത് ഉപയോഗപ്രദമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യം ആരംഭിക്കുന്നു അതിനാൽ ഒരാൾ ഡാറ്റാ സയൻസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡാറ്റാ പ്രാതിനിധ്യം ഡാറ്റാ സയൻസിന്റെ ഒരു പ്രധാന വശമായി മാറുന്നു ഡാറ്റ സാധാരണയായി ഒരു മാട്രിക്സ് രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നു കൂടാതെ മെട്രിക്സുകളിലെ ഈ പ്രാതിനിധ്യത്തെയും ആശയങ്ങളെയും കുറിച്ച് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നു ഒരു ഡാറ്റാ സയൻസ് വീക്ഷണകോണിൽ നിന്ന് ഒരാൾക്ക് താൽപ്പര്യമുള്ള രണ്ടാമത്തെ പ്രധാന കാര്യം ഈ ഡാറ്റയിൽ നിരവധി താൽപ്പര്യ വേരിയബിളുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വേരിയബിളുകളിൽ എത്രയെണ്ണം വളരെ പ്രധാനമാണെന്നും ഈ വേരിയബിളുകൾ തമ്മിൽ ബന്ധങ്ങളുണ്ടെന്നും ഈ ബന്ധങ്ങളുണ്ടെങ്കിൽ ഒരാൾ എങ്ങനെ ഈ ബന്ധങ്ങൾ കണ്ടെത്തും എന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഡാറ്റ മനസിലാക്കുന്നതിന്റെ വീക്ഷണകോണിൽ നിന്ന് ഉത്തരം നൽകേണ്ട രസകരവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു ചോദ്യം കൂടിയാണിത് ലീനിയർ ആൾജിബ്രിക് ഉപകരണങ്ങൾ ഇത് മനസിലാക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നു ഇത് ഈ കോഴ് സിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നാണ് ലീനിയർ ആൾജിബ്രയിൽ നിന്നുള്ള ആശയങ്ങൾ എല്ലാത്തരം മെഷീൻ ലേണിംഗ് അൽഗോരിതംസിലും വളരെ പ്രധാനമാണെന്ന് ഞങ്ങൾ അടിസ്ഥാനപരമായി പറയുന്ന മൂന്നാമത്തെ ബ്ലോക്ക് അതിനാൽ ഈ ആശയങ്ങളിൽ ചിലത് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് പോയി കൂടുതൽ സങ്കീർണ്ണമോ സങ്കീർണ്ണമോ ആയ മെഷീൻ ലേണിംഗ് അൽഗോരിതം മനസിലാക്കാൻ കഴിയും അതിനാൽ ആ അർത്ഥത്തിൽ ഡാറ്റാ സയൻസിന്റെ ഒരു പ്രധാന ഘടകമാണ് ലീനിയർ ആൾജിബ്രയും അതിനാൽ ഞങ്ങൾ മെട്രിക്സുകളിൽ നിന്ന് ആരംഭിക്കും നിങ്ങളിൽ പലരും മുമ്പ് മെട്രിക്സുകൾ കാണുമായിരുന്നു ഞാൻ മെട്രിക്സുകളെ നോക്കുകയും ഡാറ്റാ സയൻസ് വീക്ഷണകോണിൽ നിന്ന് പ്രസക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ സംഗ്രഹിക്കുകയും ചെയ്യും എന്താണ് മാട്രിക്സ് വരികളിലേക്കും നിരകളിലേക്കും ഡാറ്റ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു രൂപമാണ് മാട്രിക്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ഓർഗനൈസുചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ട് ഈ ഡാറ്റ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു സ way കര്യപ്രദമായ മാർഗം ഒരു മാട്രിക്സ് നിങ്ങൾക്ക് നൽകുന്നു അതിനാൽ നിങ്ങൾ ഒരു എഞ്ചിനീയറാണെങ്കിൽ ഒന്നിലധികം വേരിയബിളുകൾക്കായുള്ള ഡാറ്റ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നിലധികം സമയങ്ങളിൽ പിന്നീട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോർമാറ്റിൽ നിങ്ങൾ എങ്ങനെ ഈ ഡാറ്റ ഒരുമിച്ച് ചേർക്കുന്നു ഒരു മാട്രിക്സ് സഹായകരമാണ് ഇപ്പോൾ ഡാറ്റയെ പ്രതിനിധീകരിക്കുന്നതിന് മെട്രിക്സുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ സമവാക്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനും മെട്രിക്സുകൾ ഉപയോഗിക്കാം കൂടാതെ മാട്രിക്സിന് അതിന്റെ ഘടകമെന്ന നിലയിൽ നിരവധി സമവാക്യങ്ങളിൽ ഗുണകങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ ഞങ്ങൾ ഈ മെട്രിക്സുകൾ സൃഷ്ടിച്ചുകഴിഞ്ഞാൽ ഈ മെട്രിക്സുകൾ മനസിലാക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായി നിങ്ങൾക്ക് ലീനിയർ ആൾജിബ്ര ഉപകരണങ്ങൾ ഉപയോഗിക്കാം അതിനാൽ ഈ ഡാറ്റയിൽ നിന്ന് ഉപയോഗപ്രദമായ വിവരങ്ങളും ഉപയോഗപ്രദമായ അറിവും നേടാൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ നമുക്ക് ആരംഭിച്ച് മെട്രിക്സുകൾ എങ്ങനെ മനസിലാക്കാമെന്നും പഠിക്കാമെന്നും മനസിലാക്കാം മാട്രിക്സുകൾ സാധാരണയായി മെഷീനുകളിലും മാട്രിക്സിലും ഡാറ്റ സംഭരിക്കാനും പ്രതിനിധീകരിക്കാനും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡാറ്റ സംഘടിപ്പിക്കുന്നതിനുള്ള വളരെ സ്വാഭാവിക സമീപനമാണ് സാധാരണഗതിയിൽ ഞങ്ങൾക്ക് ഒരു മാട്രിക്സ് ഉള്ളപ്പോൾ ഇത് വരികളും നിരകളും ഉള്ള ഒരു ചതുരാകൃതിയിലുള്ള ഘടനയാണ് പൊതുവേ സാമ്പിളുകളെ പ്രതിനിധീകരിക്കുന്നതിന് ഞങ്ങൾ വരികൾ ഉപയോഗിക്കുന്നു തുടർന്നുള്ള സ്ലൈഡുകളിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിശദീകരിക്കും കൂടാതെ ഡാറ്റയിലെ വേരിയബിളുകളോ ആട്രിബ്യൂട്ടുകളോ പ്രതിനിധീകരിക്കുന്നതിന് ഞങ്ങൾ നിരകൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഇത് ഒരു പ്രാതിനിധ്യം മാത്രമാണ് സാമ്പിളുകളെ പ്രതിനിധീകരിക്കുന്നതിന് വേരിയബിളുകളെയും നിരകളെയും പ്രതിനിധീകരിക്കുന്നതിന് വരികൾ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അതിൽ തെറ്റൊന്നുമില്ല എന്നിരുന്നാലും ഈ കോഴ് സിലും ഈ കോഴ് സിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന എല്ലാ മെറ്റീരിയലുകളിലും ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേരിയബിളുകളെ പ്രതിനിധീകരിക്കുന്നതിന് സാമ്പിളുകളെയും നിരകളെയും പ്രതിനിധീകരിക്കുന്നതിന് വരികൾ ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾ ഉറച്ചുനിൽക്കും ഒരു യഥാർത്ഥ ജീവിത ഉദാഹരണം ഉപയോഗിച്ച് ഞാൻ മാട്രിക്സ് വിശദീകരിക്കാം നിങ്ങൾ ഒരു എഞ്ചിനീയറാണെന്നും ഒന്നിലധികം ആട്രിബ്യൂട്ടുകളുള്ള ഒരു റിയാക്ടറിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെന്നും പ്രഷർ സെൻസറുകൾ പോലുള്ള സെൻസറുകളിൽ നിന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും നമുക്ക് പരിഗണിക്കാം താപനില സെൻസറുകളും സാന്ദ്രതയും മറ്റും ഈ വേരിയബിളുകളുടെ 1000 സാമ്പിളുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡാറ്റ എങ്ങനെയെങ്കിലും ഓർഗനൈസുചെയ്യാൻ ആഗ്രഹമുണ്ട് അതിനാൽ ആവശ്യമായ ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും ഇത് ചെയ്യാനുള്ള ഒരു മാർഗം ഈ മാട്രിക്സ് രൂപത്തിൽ ഇത് സംഘടിപ്പിക്കുക എന്നതാണ് അവിടെ ആദ്യത്തെ നിര വ്യത്യസ്ത സാമ്പിൾ പോയിന്റുകളിലെ സമ്മർദ്ദത്തിന്റെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന നിരയാണ് രണ്ടാമത്തെ നിര നിരവധി സാമ്പിൾ പോയിന്റുകളിലെ താപനിലയുടെ മൂല്യവുമായി യോജിക്കുന്നു മൂന്നാമത്തെ നിര നിരവധി സാമ്പിൾ പോയിന്റുകളിലെ സാന്ദ്രതയുടെ മൂല്യവുമായി യോജിക്കുന്നു അതിനാൽ വേരിയബിളിനെ പ്രതിനിധീകരിക്കാൻ നിരകൾ ഉപയോഗിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനാൽ ഓരോ നിരയും വേരിയബിൾ നിര 1 മർദ്ദം നിര 2 താപനില നിര 3 സാന്ദ്രത എന്നിവ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ വരികൾ നോക്കുമ്പോൾ ആദ്യ വരി ആദ്യ സാമ്പിളിനെ പ്രതിനിധീകരിക്കുന്നു സമ്മർദ്ദത്തിന്റെ മൂല്യം 300 ആണെന്നും താപനിലയുടെ മൂല്യം 300 ആണെന്നും സാന്ദ്രതയുടെ മൂല്യം 1000 ആണെന്നും ആദ്യ സാമ്പിളിൽ നിങ്ങൾ വായിക്കും അതിന സമാനമായി ഓരോ സാമ്പിൾ പോയിന്റിനും അനുബന്ധമായി നിങ്ങൾക്ക് അവസാന വരി 1000 ാം വരി വരെ നിരവധി വരികൾ ഉണ്ടാകും ഇത് 1000 സാമ്പിൾ പോയിന്റാണ് സമ്മർദ്ദമുള്ള 500 താപനില 1000 ഉം സാന്ദ്രത 5000 ഉം ആണ് നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം എനിക്ക് 2 വെക്റ്ററുകളുണ്ടെന്ന് പറയാം എക്സ് 1 2 3 T Y 2 4 6 ഇത് നിങ്ങൾ അളന്ന ചില വേരിയബിളാണെന്നും Y നിങ്ങൾ അളന്ന മറ്റ് ചില വേരിയബിളാണെന്നും 3 മൂല്യങ്ങൾ നിങ്ങൾ ഇവ അളന്ന 3 സാമ്പിൾ പോയിന്റുകളെ പ്രതിനിധീകരിക്കാമെന്നും നമുക്ക് പറയാം ഇപ്പോൾ R ൽ നിങ്ങൾക്ക് ഈ നമ്പറുകൾ ഒരു മാട്രിക്സിലേക്ക് ഇടണമെങ്കിൽ ഇത് വളരെ ലളിതമായ ഒരു കോഡാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതാണ് X c 1 2 3 1 2 3 y മൂല്യങ്ങളുള്ള ഒരു നിര വെക്റ്ററാണെന്ന് ഇത് നിങ്ങളോട് പറയുന്നു 2 മൂല്യങ്ങളുള്ള ഒരു നിര വെക്റ്ററാണ് 4 6 എന്നിട്ട് നിങ്ങൾ ഒരു cbind x y കമാൻഡ് ഉപയോഗിക്കുന്നു ഇത് ഇവ ഒരുമിച്ച് ചേർക്കുന്നു നിങ്ങൾ അച്ചടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മാട്രിക്സിന്റെ മൂല്യം ലഭിക്കും എഞ്ചിനീയറിംഗ് പ്രോസസ് സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റയെ പ്രതിനിധീകരിക്കുന്നതിന് മെട്രിക്സുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നു എല്ലാത്തരം ആപ്ലിക്കേഷനുകൾക്കും മാട്രിക്സ് എന്ന ആശയം മാട്രിക്സ് കൈകാര്യം ചെയ്യുന്നതും മാട്രിക്സുകൾ കൈകാര്യം ചെയ്യുന്നതും വളരെ പ്രധാനമാണ് ചിത്രങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ ഒരു കമ്പ്യൂട്ടർ എങ്ങനെ സംഭരിക്കാമെന്ന് ഞാൻ കാണിക്കുന്ന മറ്റൊരു ഉദാഹരണം ഇതാ അതിനാൽ ഉദാഹരണത്തിന് ഈ ചിത്രം ഈ ഇടത് വശത്ത് ഇവിടെ എടുക്കുകയും ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെയെങ്കിലും ഈ ചിത്രത്തെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിനുള്ള ഒരു മാർഗം ഈ ചിത്രത്തെ സംഖ്യകളുടെ മാട്രിക്സായി പ്രതിനിധീകരിക്കുക എന്നതാണ് അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ ഒരു ചെറിയ പ്രദേശം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ പ്രദേശം ഒന്നിലധികം പിക്സലുകളാക്കി തകർക്കാനും ഒരു പിക്സൽ ഒരു വെളുത്ത പശ്ചാത്തലമാണോ അല്ലെങ്കിൽ കറുത്ത പശ്ചാത്തലമാണോ എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ പ്രദേശത്ത് ഇടാം നമ്പർ അതിനാൽ ഉദാഹരണത്തിന് വെളുത്ത ബാക്ക് ഗ്രൌണ്ടിനെ പ്രതിനിധീകരിക്കുന്ന വലിയ സംഖ്യകളുള്ള ഈ നമ്പറുകൾ ഇവിടെ കാണാം കൂടാതെ കറുത്ത പശ്ചാത്തലത്തെ പ്രതിനിധീകരിക്കുന്ന ഈ ചെറിയ സംഖ്യകളുണ്ട് അതിനാൽ ഇത് ഒരു സ്നാപ്പ്ഷോട്ട് അല്ലെങ്കിൽ ഈ ചിത്രത്തിന്റെ വളരെ ചെറിയ ഭാഗമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രം അത്തരം പല ഭാഗങ്ങളിലേക്കും നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ മാട്രിക്സ് ഉണ്ടാകും കൂടാതെ വലിയ മാട്രിക്സ് ചിത്രത്തെ പ്രതിനിധീകരിക്കാൻ തുടങ്ങും ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന് വ്യത്യസ്ത ചിത്രങ്ങൾ നോക്കാനും അവ വ്യത്യസ്തമാണോ അതോ സമാനമാണോ അല്ലെങ്കിൽ ചിത്രത്തിലെ ഉപ ഘടകങ്ങൾ തിരിച്ചറിയണോ എന്ന് കാണാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ട് അങ്ങനെ അവയെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള മാട്രിക്സ് കൃത്രിമത്വത്തിലൂടെയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ചിത്രത്തെ ഒരു മാട്രിക്സാക്കി മാറ്റുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കുക ഞങ്ങൾ ഈ മാട്രിക്സ് പരിവർത്തനം ചെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ചതുരാകൃതിയിലുള്ള രൂപത്തിലേക്ക് കടന്നുവന്നു അവിടെ ഞങ്ങൾക്ക് വരികളും നിരകളും ഉണ്ട് അവിടെ ഈ ചിത്രത്തിനുള്ള പ്രാതിനിധ്യമായി ഡാറ്റ പൂരിപ്പിക്കുന്നു അതിനാൽ ഞാൻ മുമ്പ് കാണിച്ച ചിത്രം ചിത്രത്തിലുടനീളം പിക്സൽ മൂല്യങ്ങളുടെ വലിയ മാട്രിക്സായി മെഷീനിൽ സംഭരിക്കാം നിങ്ങൾക്ക് മറ്റ് ചിത്രങ്ങളും കാണിക്കാൻ കഴിയും ഈ ചിത്രങ്ങൾ ഇതിന് സമാനമാണെന്ന് പറയുക ഈ സമാനതകളാണ് ലീനിയർ ആൾജിബ്ര മാട്രിക്സ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ആശയങ്ങളും ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതംസിന്റെ ഹൃദയഭാഗത്താണ് അതിനാൽ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഒരു ഡാറ്റ മാട്രിക്സ് ഉണ്ടെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പ്ലാനിലെ സെൻസസിൽ നിന്നുള്ള ഡാറ്റയാകാം ഡാറ്റ മാട്രിക്സ് ഇത് ഒരു ചിത്രത്തെ പ്രതിനിധീകരിക്കുന്ന ഡാറ്റയാകാം നിരവധി സമവാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഗുണകങ്ങൾ ഉള്ള മോഡലിനെ പ്രതിനിധീകരിക്കുന്ന ഡാറ്റയാകാം ഇത് അതിനാൽ മാട്രിക്സിന് അടിസ്ഥാനപരമായി വിവിധ ഉറവിടങ്ങളിൽ നിന്നോ വിവിധ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്നോ ഡാറ്റ ഉണ്ടായിരിക്കാം കൂടാതെ ഓരോ ഡാറ്റാ മാട്രിക്സിനും വരികളും നിരകളും സവിശേഷതയുണ്ട് വരികൾ സാമ്പിളുകളെ പ്രതിനിധീകരിക്കുന്നു നിരകൾ ആട്രിബ്യൂട്ടുകളെയോ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ വേരിയബിളുകൾ ഇപ്പോൾ ഞങ്ങൾ എങ്ങനെ ഒരു മാട്രിക്സ് സൃഷ്ടിക്കുന്നുവെന്നും എന്തുകൊണ്ടാണ് ഞങ്ങൾ മെട്രിക്സുകൾ സൃഷ്ടിക്കുന്നതെന്നും മനസ്സിലാക്കി അടുത്ത ചോദ്യം ഇനിപ്പറയുന്നവയായിരിക്കാം എനിക്ക് നിരവധി സാമ്പിളുകളും നിരവധി വേരിയബിളുകളും ഉള്ള ഒരു മാട്രിക്സ് ഉണ്ടെന്ന് കരുതുക ഡാറ്റയിൽ ഉള്ള എല്ലാ വേരിയബിളുകളും പ്രധാനമാണോ എന്ന് അറിയാൻ എനിക്ക് താൽപ്പര്യമുണ്ടാകാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ വേരിയബിളുകളെല്ലാം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ എത്ര പേർ സ്വതന്ത്ര വേരിയബിളുകളാണ് അതിനാൽ ഈ ഡാറ്റയിൽ എത്ര വിവരങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം അതിനാൽ എനിക്ക് ആയിരക്കണക്കിന് വേരിയബിളുകൾ ഉണ്ടെന്നും അതിൽ 4 അല്ലെങ്കിൽ 5 എണ്ണം മാത്രമേ സ്വതന്ത്രമാകൂ എന്നും നമുക്ക് പറയാം ഈ കുറച്ച് വേരിയബിളുകൾ ക്ക് മാത്രമേ എനിക്ക് മൂല്യങ്ങൾ സംഭരിക്കാനും ശേഷിക്കുന്നവ ഈ വേരിയബിളുകളുടെ പ്രവർത്തനമായി കണക്കാക്കാനും കഴിയൂ എന്നാണ് ഇതിനർത്ഥം അതിനാൽ എനിക്ക് യഥാർത്ഥത്തിൽ എത്ര വിവരങ്ങളുണ്ടെന്ന് അറിയേണ്ടത് പ്രധാനമാണ് അതിനാൽ ഇത് ഇനിപ്പറയുന്ന ചോദ്യങ്ങളിലേക്ക് നയിക്കും ആദ്യ ചോദ്യം ആകാം ഡാറ്റാ മാട്രിക്സിലെ എല്ലാ ആട്രിബ്യൂട്ടുകളും വേരിയബിളുകളും ശരിക്കും പ്രസക്തമോ പ്രധാനപ്പെട്ടതോ ആണോ ഇപ്പോൾ ഒരു ഉപ ചോദ്യം അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുക എന്നതാണ് മറ്റ് വേരിയബിളുകളുടെ സംയോജനമായി എനിക്ക് ഒരു വേരിയബിൾ എഴുതാൻ കഴിയുമെങ്കിൽ അടിസ്ഥാനപരമായി എനിക്ക് ആ വേരിയബിൾ ഉപേക്ഷിച്ച് മറ്റ് വേരിയബിളുകൾ നിലനിർത്താനും എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ വേരിയബിൾ കണക്കാക്കാനും കഴിയും അതിനാൽ മെഷീൻ ലേണിംഗിലും മറ്റ് വിവിധ ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അതിനാൽ ഈ വേരിയബിളുകളിൽ എത്രയെണ്ണം ശരിക്കും സ്വതന്ത്രമാണെന്നും ഞാൻ ചെയ്യുന്നുവെന്നും കുറച്ച് വേരിയബിളുകൾ മാത്രമേ ശരിക്കും സ്വതന്ത്രമാകൂ എന്നും അനുമാനിക്കാം ഈ വേരിയബിളുകളും മറ്റ് ആശ്രിത വേരിയബിളുകളും തമ്മിലുള്ള ബന്ധം ഞാൻ എങ്ങനെ തിരിച്ചറിയും ഒരിക്കൽ ഞാൻ അത് ചെയ്തുകഴിഞ്ഞാൽ ഡാറ്റാ മാട്രിക്സിന്റെ വലുപ്പം ഞങ്ങൾ എങ്ങനെ കുറയ്ക്കും ഒരാൾക്ക് ഉത്തരം നൽകാൻ താൽപ്പര്യമുള്ള ചോദ്യങ്ങളാണ് അതിനാൽ ഞങ്ങൾ സംസാരിച്ച ഉദാഹരണം പരിഗണിക്കാം ഒന്നിലധികം ആട്രിബ്യൂട്ടുകളുള്ള റിയാക്ടർ മുമ്പത്തെ സ്ലൈഡിൽ ഞങ്ങൾ സമ്മർദ്ദം താപനില സാന്ദ്രത എന്നിവയെക്കുറിച്ച് സംസാരിച്ചു ഇവിടെ ഞാൻ വിസ്കോസിറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് 500 സാമ്പിളുകൾ ഉണ്ടെന്ന് പറയാം വരിയിലെ നിരകളിലെയും സാമ്പിളുകളിലെയും വേരിയബിളുകൾ ഉപയോഗിച്ച് ഞാൻ ഈ ഡാറ്റ ഓർഗനൈസുചെയ്യുമ്പോൾ എനിക്ക് 500 മുതൽ 4 മാട്രിക്സ് ലഭിക്കും ഓരോ വരിയും 500 സാമ്പിളുകളിൽ ഒന്ന് പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ നിരയിലുടനീളം പോയാൽ അത് വേരിയബിൾ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കും ഞങ്ങൾ എടുത്ത എല്ലാ സാമ്പിളുകളിലും ഇവയിൽ എത്രയെണ്ണം ശരിക്കും സ്വതന്ത്ര ആട്രിബ്യൂട്ടുകളാണെന്ന് ഇപ്പോൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഡൊമെയ്ൻ അറിവിൽ നിന്ന് സാന്ദ്രത പൊതുവേ സമ്മർദ്ദത്തിന്റെയും താപനിലയുടെയും പ്രവർത്തനമാണെന്ന് പറയാൻ കഴിഞ്ഞേക്കും അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് കുറഞ്ഞത് ഒരു ആട്രിബ്യൂട്ട് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും ഈ ബന്ധം ഒരു രേഖീയ ബന്ധമായി മാറുകയാണെങ്കിൽ ഈ വേരിയബിളിനെ മറ്റൊന്നിന്റെ രേഖീയ സംയോജനമായി കണക്കാക്കാം വേരിയബിളുകൾ ഇപ്പോൾ ഇതെല്ലാം ശരിയാണെങ്കിൽ പ്രശ്നത്തിന്റെ ഭൌതികശാസ്ത്രം ഈ ഡാറ്റാ മാട്രിക്സിലെ ബന്ധം തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിച്ചു ഈ ബന്ധങ്ങൾ തിരിച്ചറിയാൻ ഡാറ്റയ്ക്ക് തന്നെ ഞങ്ങളെ സഹായിക്കാനാകുമോ എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാൻ താൽപ്പര്യമുള്ള യഥാർത്ഥ ചോദ്യം സ്വതന്ത്ര വേരിയബിളുകളുടെ എണ്ണം തിരിച്ചറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ മാട്രിക്സ് ലഭിച്ചുകഴിഞ്ഞാൽ ആട്രിബ്യൂട്ടുകളേക്കാൾ കൂടുതൽ സാമ്പിളുകൾ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് ആദ്യം അനുമാനിക്കാം മാട്രിക്സിന്റെ റാങ്കും മാട്രിക്സിന്റെ റാങ്കും ഉപയോഗപ്രദമാകുന്ന ആശയം നിർവചിച്ചിരിക്കുന്നത് രേഖീയമായി സ്വതന്ത്ര വരികളുടെയോ മാട്രിക്സിൽ നിലനിൽക്കുന്ന നിരകളുടെയോ എണ്ണമാണ് രേഖീയമായി സ്വതന്ത്രമായ വരികളോ നിരകളോ നിങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ അടിസ്ഥാനപരമായി എനിക്ക് വളരെയധികം സ്വതന്ത്ര വേരിയബിളുകൾ മാത്രമേ ഉള്ളൂവെന്നും ബാക്കിയുള്ളവ ആശ്രിത വേരിയബിളുകളും റാങ്കും ആണെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങളുടെ എ റാങ്കിലെ റാങ്ക് കമാൻഡ് ഉപയോഗിച്ച് മാട്രിക്സ് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ 1 2 3 2 4 6 1 0 0 എന്ന മാട്രിക്സ് ഉള്ള ഈ ഉദാഹരണം ഇവിടെ പരിഗണിക്കുക ഈ മാട്രിക്സ് മന ib പൂർവ്വം ജനറേറ്റുചെയ് തിട്ടുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നിര രണ്ടുതവണ നിരയാണ് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രണ്ടാമത്തെ നിര ആദ്യ നിരയെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആദ്യ നിര രണ്ടാമത്തെ നിരയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഈ രണ്ടിൽ നിന്ന് സ്വതന്ത്രമായ മറ്റൊരു നിരയുണ്ട് അതിനാൽ ഈ മാട്രിക്സിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 2 സ്വതന്ത്ര നിരകളുണ്ട് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് 2 സ്വതന്ത്ര വേരിയബിളുകൾ ഉണ്ട് എന്നാണ് അതിനാൽ ഇത് തിരിച്ചറിയാൻ നിങ്ങൾ R ഉപയോഗിക്കുകയാണെങ്കിൽ ശരിയായ ലൈബ്രറി ലോഡുചെയ് ത് എ കമാൻഡ് റാങ്ക് ഉപയോഗിക്കുക നിങ്ങൾക്ക് മാട്രിക്സിന്റെ റാങ്ക് 2 ആയി ലഭിക്കും അതിനാൽ റാങ്ക് എന്ന ആശയം പ്രധാനമാണ് കുറച്ച വേരിയബിളുകളുമായി പ്രവർത്തിക്കാൻ ഇത് ഞങ്ങളെ അനുവദിക്കുന്നു ഒരിക്കൽ ഞങ്ങൾ സ്വതന്ത്രരെ തിരിച്ചറിയുന്നു ഒരേ ഡാറ്റാ ജനറേഷൻ പ്രക്രിയയിൽ നിന്ന് ഡാറ്റ ജനറേറ്റുചെയ്യുകയാണെങ്കിൽ വേരിയബിളുകൾ ആശ്രിത വേരിയബിളുകൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകൾ സ്വതന്ത്ര വേരിയബിളുകളിൽ നിന്ന് കണക്കാക്കാം മറ്റ് വേരിയബിളുകളെ ആശ്രയിച്ചിരിക്കുന്ന ചില വേരിയബിളുകൾ ഉണ്ടെന്നും ഡാറ്റാ ജനറേഷൻ പ്രക്രിയ ഒന്നുതന്നെയായിരിക്കുന്നിടത്തോളം കാലം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾ എത്ര സാമ്പിളുകൾ സൃഷ്ടിക്കുന്നു എന്നത് പ്രശ്നമല്ല സ്വതന്ത്ര വേരിയബിളുകളുടെ പ്രവർത്തനമായി നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഡി പെൻഡന്റ് വേരിയബിളുകൾ കണ്ടെത്താൻ കഴിയും എത്ര സ്വതന്ത്ര വേരിയബിളുകൾ ഉണ്ടെന്ന് തിരിച്ചറിയുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചു സ്വതന്ത്ര വേരിയബിളുകളുടെ എണ്ണം സ്വതന്ത്ര വേരിയബിളുകളേക്കാൾ കുറവാണെന്ന് കരുതുക വേരിയബിളുകളുടെ എണ്ണം അടിസ്ഥാനപരമായി ഈ വേരിയബിളുകൾക്കിടയിൽ ശരിക്കും രേഖീയ ബന്ധങ്ങളുണ്ടെന്നാണ് ഇത് യാന്ത്രികമായി അർത്ഥമാക്കുന്നത് വേരിയബിളുകൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകൾക്കിടയിൽ ഈ രേഖീയ ബന്ധ ഷിപ്പുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുന്നു അതിനാൽ ആട്രിബ്യൂട്ടുകൾക്കിടയിലെ രേഖീയ ബന്ധങ്ങളെ ഒരാൾ എങ്ങനെ തിരിച്ചറിയുന്നു എന്നതിനെക്കുറിച്ചുള്ള ഈ ചോദ്യത്തിന് അസാധുവായ സ്ഥലത്തിന്റെയും അസാധുവായതിന്റെയും ആശയങ്ങൾ ഉത്തരം നൽകുന്നു അതാണ് ഞങ്ങൾ ഇപ്പോൾ വിവരിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഒരു മാട്രിക്സ് എ ഉള്ളപ്പോൾ വെക്റ്ററുകൾ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ A β 0 β 0 അപ്പോൾ ഞങ്ങൾ ഈ വെക്റ്റർ β നെ മാട്രിക്സിന്റെ ശൂന്യമായ ഇടമായി വിളിക്കും അതിനാൽ ഉദാഹരണത്തിന് എ 3 മുതൽ 3 വരെ മാട്രിക്സ് ആണെങ്കിൽ ഇവിടെ കുറച്ച് ലളിതമായ നമ്പറുകൾ ചെയ്യാം കാരണം β ഗുണിതങ്ങൾ എ β 3 മുതൽ 1 വരെ ആയിരിക്കണം ഫലം 3 മുതൽ 1 വെക്റ്റർ വരെയാകും ഈ 3 ന്റെ എല്ലാ ഘടകങ്ങളും 1 വെക്റ്റർ 0 ആണെങ്കിൽ തുടർന്ന് ഞങ്ങൾ ഇതിനെ മാട്രിക്സിന്റെ ശൂന്യമായ ഇടമായി വിളിക്കും ഇപ്പോൾ രസകരമായി മാട്രിക്സിന്റെ ശൂന്യമായ ഇടത്തിന്റെ വലുപ്പം വേരിയബിളുകൾക്കിടയിലുള്ള ബന്ധങ്ങളുടെ എണ്ണം നൽകുന്നു നിങ്ങൾക്ക് ഒരു മാട്രിക്സ് ഉണ്ടെങ്കിൽ അത് 5 അളവാണ് കൂടാതെ ശൂന്യമായ സ്ഥലത്തിന്റെ വലുപ്പം 2 ആണെന്ന് പറയാം അടിസ്ഥാനപരമായി ഇതിനർത്ഥം ഈ 5 വേരിയബിളുകൾക്കിടയിൽ 2 ബന്ധങ്ങളുണ്ടെന്നാണ് ഈ 5 വേരിയബിളുകളിൽ 3 എണ്ണം മാത്രമേ രേഖീയമായി സ്വതന്ത്രമാകൂ എന്നും ഇത് യാന്ത്രികമായി അർത്ഥമാക്കുന്നു കാരണം ഈ സ്വതന്ത്ര വേരിയബിളുകളുടെ പ്രവർത്തനമായി ആശ്രിത വേരിയബിളുകൾ കണക്കാക്കാൻ 2 ബന്ധങ്ങൾ നിങ്ങളെ അനുവദിക്കും ഇപ്പോൾ ഈ ശൂന്യമായ ബഹിരാകാശ വെക്റ്ററുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസിലാക്കാൻ ഇത് കുറച്ചുകൂടി വിശദമായി നോക്കാം ഇതുപോലുള്ള ഒരു മാട്രിക്സ് എന്റെ പക്കലുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ ഒരു β ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ ഇവിടെ എഴുതിയത് അതായത് ഒരു തവണ β 0 മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അളവിന്റെ ഈ മാട്രിക്സ് ഉണ്ടെങ്കിൽ ഈ മാട്രിക്സുമായി ഞാൻ β വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വലതുവശത്ത് നിരവധി ഘടകങ്ങൾ ഉണ്ടാകും കൂടാതെ ഈ മാട്രിക്സിന്റെ ശൂന്യമായ ഇടമായി ഓരോ ഘടകങ്ങളും 0 ന് തുല്യമായിരിക്കണം ഇപ്പോൾ ഈ ഘടകങ്ങൾ ഓരോന്നും തുല്യമാണെന്ന് നോക്കാം അതിനാൽ നിങ്ങൾ വലതുഭാഗത്ത് ആദ്യത്തെ ഘടകം എടുക്കുകയാണെങ്കിൽ അത് ഈ ഡാറ്റ മാട്രിക്സിന്റെ ആദ്യ വരിയുടെയും ഈ β വെക്റ്ററിന്റെയും ഉൽപ്പന്നമായിരിക്കും അടിസ്ഥാനപരമായി x11 β1 x12 β2 ആയിരിക്കും xn βn 0 വരെയുള്ള എല്ലാ വഴികളും ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ വരിയിൽ എത്തി രണ്ടാമത്തെ വരി ഈ വെക്റ്റർ കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു സമവാക്യം ലഭിക്കും അതിനാൽ ഞങ്ങൾ താഴേക്ക് പോയാൽ ഓരോ സാമ്പിളിനും നിങ്ങൾ ഈ ഉൽപ്പന്നം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമവാക്യം ലഭിക്കും ഉദാഹരണത്തിന് അവസാന സാമ്പിൾ xm1 β1 xm2 β2 xmn βn 0 ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രസകരമായ ഒരു കാര്യമുണ്ട് ഈ സമവാക്യം എല്ലാ സാമ്പിളുകൾക്കും തൃപ്തികരമാണെന്ന് തോന്നുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് സാമ്പിൾ പരിഗണിക്കാതെ വേരിയബിളുകൾ ഈ സമവാക്യം കൈവശം വച്ചിരിക്കുന്നതായി തോന്നുന്നു ഈ സമവാക്യം ഓരോ സാമ്പിളിനും കൈവശം വച്ചിരിക്കുന്നതിനാൽ ഇത് ഈ വേരിയബിളുകളോ ആട്രിബ്യൂട്ടോ തമ്മിലുള്ള യഥാർത്ഥ ബന്ധമാണെന്ന് ഞങ്ങൾ അനുമാനിക്കും അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ β 1 മുതൽ β m വരെ നിങ്ങൾക്ക് നൽകുന്നു ചില അർത്ഥങ്ങൾ ഒരു മോഡൽ സമവാക്യം അല്ലെങ്കിൽ ഈ വേരിയബിളുകൾക്കിടയിലുള്ള ബന്ധം അതിനാൽ ഈ സമവാക്യം സാധാരണയായി x1 β1 x2 β2 എന്ന് എഴുതാൻ കഴിയുമെന്ന് ഒരാൾ പറഞ്ഞേക്കാം xn βn 0 വരെ അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും സാമ്പിൾ എടുത്ത് ആ സാമ്പിളിലെ വേരിയബിളുകളുടെ മൂല്യങ്ങൾ x1 x2 ൽ xn വരെ മാറ്റിസ്ഥാപിക്കാൻ കഴിയും ഇത് തൃപ്തിപ്പെടുത്തണം അതിനാൽ ഇതൊരു യഥാർത്ഥ ബന്ധമാണ് അതിനാൽ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് A β 0 എ യുടെ ഓരോ വരി β കൊണ്ട് ഗുണിക്കുമ്പോൾ 0 ലേക്ക് പോകുന്നുവെന്ന് ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക അതിനാൽ ഓരോ സാമ്പിളിലെയും വേരിയബിൾ മൂല്യങ്ങൾ അതേപടി പ്രവർത്തിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ വേരിയബിളുകൾ തമ്മിലുള്ള ഒരു രേഖീയ ബന്ധം ഞങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഓരോ ശൂന്യമായ ബഹിരാകാശ വെക്റ്ററും അത്തരമൊരു ബന്ധവുമായി യോജിക്കുന്നു നിങ്ങൾക്ക് ശൂന്യമായ സ്ഥലത്ത് കൂടുതൽ വെക്റ്ററുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബന്ധങ്ങളുണ്ട് അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അതിനാൽ ഈ ഉദാഹരണം ഞങ്ങൾ ഇത് കൂടുതൽ ഉദാഹരണത്തോടെ പ്രദർശിപ്പിക്കും അതിനാൽ ഈ റാങ്ക് അസാധുവായ സിദ്ധാന്തം അടിസ്ഥാനപരമായി മാട്രിക്സ് എ ന്റെ അസാധുവാക്കൽ മാട്രിക്സ് എ റാങ്ക് എ യുടെ മൊത്തം ആട്രിബ്യൂട്ടുകളുടെ എണ്ണത്തിനോ നിരകളുടെ എണ്ണത്തിനോ തുല്യമാകുമെന്ന് പറയുന്നു മാട്രിക്സിന്റെ അതിനാൽ ഒരു സമവാക്യത്തിന്റെ ശൂന്യത എത്ര സമവാക്യങ്ങളുണ്ടെന്ന് നിങ്ങളോട് പറയുന്നു ശൂന്യമായ സ്ഥലത്ത് നിരവധി വെക്റ്ററുകൾ ഉണ്ട് എ റാങ്ക് എത്ര സ്വതന്ത്ര വേരിയബിളുകൾ ഉണ്ടെന്നും നിങ്ങൾ ഇവ രണ്ടും ചേർക്കുമ്പോൾ നിങ്ങളുടെ പ്രശ് നത്തിൽ ഉള്ള മൊത്തം വേരിയബിളുകളുടെ എണ്ണം നിങ്ങൾക്ക് ലഭിക്കണമെന്നും പറയുന്നു അതിനാൽ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഡാറ്റ ഉള്ളപ്പോൾ ലഭ്യമായ ഡാറ്റ ഒരു ഡാറ്റ മാട്രിക്സിന്റെ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയും ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ കണ്ടതുപോലെ ഇത് വ്യത്യസ്ത തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഡാറ്റ മാട്രിക്സ് കൂടുതൽ ഉപയോഗിക്കാം ഞങ്ങൾ അസാധുവായ സ്ഥലവും നിർവചിച്ചു ഈ ബന്ധത്തെ തൃപ്തിപ്പെടുത്തുന്ന വെക്റ്ററുകളുടെ ഒരു ശേഖരമായി ശൂന്യമായ ഇടം നിർവചിക്കപ്പെടുന്നു A time β 0 അതിനാൽ ആട്രിബ്യൂട്ടുകളോ വേരിയബിളുകളോ തമ്മിലുള്ള രേഖീയ ബന്ധങ്ങളും അത്തരം വെക്റ്ററുകളുടെ എണ്ണവും അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളുടെ എണ്ണവും തിരിച്ചറിയുന്നതിന് ഇത് അടിസ്ഥാനപരമായി സഹായിക്കുന്നു മാട്രിക്സിന്റെ നഗ്നത നിങ്ങളോട് എത്ര ബന്ധങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ ശൂന്യമായ സ്ഥലത്ത് എത്ര വെക്റ്ററുകൾ ഉണ്ടെന്നും പറയുന്നു ഈ ആശയങ്ങൾ കുറച്ചുകൂടി ദൃ concrete മാക്കാൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ എടുക്കാം 1 3 5 2 4 6 എന്ന മാട്രിക്സ് എ എടുക്കാം ഈ മാട്രിക്സിലേക്ക് പെട്ടെന്ന് നോക്കുക അക്കങ്ങൾ നിങ്ങളോട് പറയും ഈ രണ്ട് നിരകളും രേഖീയമായി സ്വതന്ത്രമാണെന്നും പിന്നീട് ഈ നിരകൾ രേഖീയമായി സ്വതന്ത്രമായതിനാൽ ഈ രണ്ട് നിരകൾക്കിടയിലും ബന്ധങ്ങളൊന്നുമില്ല വേരിയബിളുകൾ അതിനാൽ നിരകളുടെ എണ്ണം 2 സ്വതന്ത്രമായതിനാൽ റാങ്ക് 2 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും റാങ്ക് 2 ആയതിനാൽ അസാധുവാണ് 0 രണ്ട് വേരിയബിളുകളും സ്വതന്ത്രമായതിനാൽ നിങ്ങൾക്ക് ഒരു ബന്ധം കണ്ടെത്താൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു ബന്ധം കണ്ടെത്താൻ കഴിയുമായിരുന്നെങ്കിൽ റാങ്ക് 2 ആയിരിക്കരുത് അതിനാൽ ഇത് അടിസ്ഥാനപരമായി സൂചിപ്പിക്കുന്നത് മാട്രിക്സ് എ യുടെ ശൂന്യമായ സ്ഥലത്ത് വെക്റ്ററുകളൊന്നും അടങ്ങിയിട്ടില്ലെന്നും ഈ വേരിയബിളുകൾ രേഖീയമായി സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന R ൽ ഇതേ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മാട്രിക്സ് എ ആണ് ഇത് അടിസ്ഥാനപരമായി ഈ കമാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നു 2 ന് തുല്യമായ ഈ n നിരകൾ ഈ നമ്പർ എത്ര നിരകളിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് പറയുന്നു അതിനാൽ രണ്ട് നിരകളുള്ളതിനാൽ ഈ നമ്പറുകൾ 1 3 5 2 4 6 എന്നിങ്ങനെ വിഭജിക്കപ്പെടും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എ റാങ്ക് ലഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടതുപോലെ നിങ്ങൾക്ക് നിരകളുടെ എണ്ണം പ്രിന്റുചെയ്യാനും റാങ്ക് പ്രിന്റുചെയ്യാനും നിരകളും നിരകളുടെ റാങ്ക് നമ്പറും റാങ്കും തമ്മിലുള്ള വ്യത്യാസമായ അസാധുവാക്കൽ അച്ചടിക്കാനും കഴിയും ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച സ്ഥലത്തെക്കുറിച്ച് സംസാരിച്ച മറ്റൊരു ഉദാഹരണം നമുക്ക് എടുക്കാം ആദ്യ നിരയുടെ ഇരട്ടി തവണ ഞങ്ങൾ മന ib പൂർവ്വം രണ്ടാമത്തെ നിര ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അതിനാൽ ഈ സാഹചര്യത്തിൽ മാട്രിക്സിന്റെ റാങ്കിന് മുമ്പ് ഞങ്ങൾ കണ്ടതുപോലെ 2 ആയിരിക്കും കാരണം രണ്ട് രേഖീയമായി സ്വതന്ത്ര നിരകൾ മാത്രമേയുള്ളൂ കൂടാതെ വേരിയബിളുകളുടെ എണ്ണം 3 അസാധുവാണ് 3 2 1 അതിനാൽ ഞങ്ങൾ ശൂന്യമായ സ് പേസ് വെക്റ്ററിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വെക്റ്റർ ഉണ്ടാകും അത് ഈ മൂന്ന് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയും അതിനാൽ ശൂന്യമായ ഇടം എങ്ങനെ കണക്കാക്കാമെന്ന് മനസിലാക്കാൻ നമുക്ക് ഈ ഉദാഹരണം നോക്കാം അതിനാൽ ഞങ്ങൾ ഈ സമവാക്യം A β 0 സജ്ജമാക്കി ഞങ്ങൾക്ക് ഇവിടെ 1 β മാത്രമേ ലഭിക്കുകയുള്ളൂവെന്നും b 1 b2 b3 എന്ന് ഞങ്ങൾ എഴുതിയതായും ആദ്യ വരി ചെയ്യുമ്പോൾ നിര ഗുണനം എന്നിവയ് ക്കെതിരേ എനിക്ക് b1 2b2 0 ലഭിക്കും ഞാൻ രണ്ടാമത്തെ വരി നിര ഗുണനം ചെയ്യുമ്പോൾ എനിക്ക് 2b1 4b2 0 ലഭിക്കും മൂന്നാമത്തെ ഗുണനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് b3 0 ലഭിക്കും ഇപ്പോൾ 2b1 4b2 0 എന്ന രണ്ടാമത്തെ സമവാക്യം ആദ്യ സമവാക്യത്തിന്റെ ഇരട്ടിയാണ് അതിനാൽ അത് എനിക്ക് അധിക വിവരങ്ങളൊന്നും നൽകുന്നില്ല ഞാൻ ആ സമവാക്യം ഉപേക്ഷിച്ചു ഇപ്പോൾ ഈ അറിയിപ്പ് പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ b 3 0 ആയി നിശ്ചയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ സമവാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് b1 ആണ് 2b2 അതിനാൽ ഞങ്ങൾ ചെയ്തത് b1 ന് പകരം 2b2 b2 1 എന്നിവ നിലനിർത്തുന്നു ഇത് അടിസ്ഥാനപരമായി ഞങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഒരു ശൂന്യമായ ബഹിരാകാശ വെക്റ്റർ ലഭിക്കും അതായത് 2 1 0 എന്നിരുന്നാലും നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കെയിലർ മൾട്ടിപ്പിൾ എന്തുതന്നെയായാലും അത് ഇപ്പോഴും ഒരു ശൂന്യമായ ബഹിരാകാശ വെക്റ്ററായി തുടരും അതിനാൽ ഒരു വെക്റ്റർ എ മാട്രിക്സാണെങ്കിൽ A തവണ β 0 ആണെങ്കിൽ ഇത് ഇനിപ്പറയുന്നവയിൽ നിന്ന് എളുപ്പത്തിൽ കാണാം സി സ്ഥിരമായിരിക്കുന്ന C β ൽ നിന്ന് മറ്റെന്തെങ്കിലും വെക്റ്റർ ഞാൻ എടുക്കുമെന്ന് കരുതുക ഞാൻ അത് വീണ്ടും പ്ലഗ് ഇൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു തവണ C β 0 ലഭിക്കും ഇത് സ്കെയിലർ ആയതിനാൽ എനിക്ക് അത് C A β 0 പുറത്തെടുക്കാൻ കഴിയും കാരണം ഇത് 0 സി തവണ 0 ആയിരിക്കും 0 അതിനാൽ ഇത് ഒരു 0 വെക്റ്റർ കൂടിയാകും അതിനാൽ β ഒരു ശൂന്യമായ ബഹിരാകാശ വെക്റ്ററായിരിക്കുമ്പോഴെല്ലാം അതിൽ ഏതെങ്കിലും സ്കെയിലർ മൾട്ടിപ്പിൾ ഒരു ശൂന്യമായ ബഹിരാകാശ വെക്റ്ററും ആയിരിക്കും അതാണ് ഇവിടെ ഈ കെ കാണുന്നത് എന്നിരുന്നാലും അടിസ്ഥാനപരമായി പറയുന്ന ഈ വേരിയബിളുകൾ തമ്മിൽ ഞങ്ങൾക്ക് ഒരു ബന്ധമുണ്ട് 2x1 x2 0 ഈ ശൂന്യമായ ബഹിരാകാശ വെക്റ്ററിൽ നിന്ന് നമുക്ക് പുറത്തുകടക്കാൻ കഴിയുന്ന ഒരു ബന്ധമാണ് അതിനാൽ വരികളിലെയും നിരകളിലെയും ഡാറ്റയെ പ്രതിനിധീകരിക്കുന്നതിന് മാട്രിക്സ് ഉപയോഗിക്കാമെന്നതിനാൽ ഈ പ്രഭാഷണം സംഗ്രഹിക്കാൻ യഥാക്രമം സാമ്പിളുകളെയും വേരിയബിളുകളെയും പ്രതിനിധീകരിക്കുന്നു കൂടുതൽ ഉപയോഗത്തിനായി പിന്നീട് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന നിരവധി സമവാക്യങ്ങളിൽ ഗുണകങ്ങൾ സംഭരിക്കുന്നതിനും മെട്രിക്കുകൾ ഉപയോഗിക്കാം റാങ്ക് എന്ന ആശയം ആശ്രിത വേരിയബിളുകളുടെയോ സാമ്പിളുകളുടെയോ എണ്ണം എന്ന ആശയം നിങ്ങൾക്ക് നൽകുന്നു ഈ വേരിയബിളുകൾ ക്കും ശൂന്യമായ സ് പേസ് വെക്ടറുകൾ ക്കുമിടയിൽ എന്തെങ്കിലും യഥാർത്ഥത്തിൽ ഈ വേരിയബിളുകൾ തമ്മിലുള്ള രേഖീയ ബന്ധം നൽകുന്നുവെങ്കിൽ അസാധുവായ ഐഡന്റി എന്ന ആശയം രേഖീയ ബന്ധങ്ങളുടെ എണ്ണം ഒഴിവാക്കുന്നു ഈ പ്രഭാഷണം മനസ്സിലാക്കാവുന്നതേയുള്ളൂവെന്നും അടുത്ത പ്രഭാഷണത്തിൽ ഞങ്ങൾ നിങ്ങളെ വീണ്ടും കാണുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു